എല്ലാവർക്കും സ്വാഗതം ദുരന്ത മോചനവും മികച്ച രീതിയിലുള്ള പുനർ നിർമ്മിതിയും എന്ന പ്രഭാഷണ പരമ്പരയിലേക്ക് സ്വാഗതം എന്റെ പേര് രാം സതീഷ് ഞാൻ ആർക്കിടെക്ചർ ആന്റ് പ്ലാനിംഗ് വിഭാഗത്തിൽ നിന്നുള്ള ഫാക്കൽറ്റിയാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി റൂർക്കി ഇന്ന് ഞാൻ വീണ്ടും സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നു എനിക്ക് പരിചിതമായ ഒരു പ്രോജക്റ്റായിരുന്നു ഇത് സ്വീഡനിൽ ചലിക്കുന്ന കിരുണയുടെ നിലവിലുള്ള പ്രോജക്ടിന്റെ ഭാഗമായിരുന്നു ഞാൻ നഗരം മുഴുവൻ എങ്ങനെയാണ് നീങ്ങിയതെന്നും ടൌൺ എന്ന നിലയിൽ ഈ നീക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വെല്ലുവിളികൾ എന്താണെന്നും ഏതുതരം പങ്കാളിത്ത സമീപനങ്ങളാണ് സ്വീകരിച്ചിരിക്കുന്നതെന്നും വികസന അധികാരികൾ ഏത് തരത്തിലുള്ള ആശങ്കകളാണ് കാണിച്ചതെന്നും ഇന്ന് ഞാൻ നിങ്ങൾക്ക് വിശദീകരിക്കും അവർ എന്തൊക്കെ ആശയക്കുഴപ്പത്തിലാണ് ചെന്നെത്തിയത് എന്നും ഈ മുഴുവൻ കാര്യങ്ങളും ഞാൻ കിരുണ പദ്ധതിയെക്കുറിച്ച് സംക്ഷിപ്തമായി ചർച്ചചെയ്യാൻ പോകുന്നു പ്രൊഫസർ ക്രിസ്റ്റീന എൽ Nilsson ലുലിയ ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള എന്റെ സഹപ്രവർത്തക ജെന്നി ജോഹോം എന്നിവരോടൊപ്പം ഞാൻ ജോലി ചെയ്തിരുന്നിടത്ത് അവർ അവിടെ നിന്നുമാണ് പിഎച്ച്ഡി ചെയ്തത് അതിനാൽ അവരുടെ അക്കാദമിക് ജോലികളിലെ പ്രോജക്റ്റ് പ്രവർത്തനങ്ങളെക്കുറിച്ചും ഞാൻ അവരുടെ സംഭാവനകളെ പരാമർശിക്കും സ്ഥലംമാറ്റ സന്ദർഭത്തിലെ വിവിധ വെല്ലുവിളികൾ എന്താണെന്നതിനെക്കുറിച്ച് ഇത് നിങ്ങൾക്ക് ഒരു ആശയം നൽകും സ്വീഡനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലായ്പ്പോഴും കഠിനമായ കാലാവസ്ഥയുള്ള സ്കാൻഡിനേവിയൻ ഭൂമിശാസ്ത്രത്തെക്കുറിച്ച് ചിന്ന്തിക്കേണ്ടതുണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും സ്വീഡിഷ് ഭാഗത്ത് തെക്ക് സ്റ്റോക്ക്ഹോമിലേക്ക് പോയാൽ അത് യൂറോപ്യൻ പ്രകൃതിദൃശ്യങ്ങളോട് വളരെ അടുത്താണ് പക്ഷേ വടക്കൻ കാലാവസ്ഥ വളരെ കഠിനമാണ് ലുലിയയിൽ നിന്ന് 35 കിലോമീറ്റർ അകലെയുള്ള റോണിയോ എന്ന ലുലിയ ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി സ്ഥലത്താണ് ഞാൻ താമസിച്ചിരുന്നത് ഇവിടെ താപനില ചിലപ്പോൾ 20 30 32 ആയി മാറുന്നു അതിനാൽ ശൈത്യകാലത്തും പല മാസങ്ങളിലും ഇങ്ങനെയാണ് കാലാവസ്ഥ വ്യത്യാസപ്പെടുന്നത് സൂര്യപ്രകാശം പോലും കാണാറില്ല സൂര്യപ്രകാശം ഒന്നോ രണ്ടോ മണിക്കൂറേ ഉണ്ടാവാറുള്ളൂ എന്നിട്ട് വളരെ സൌമ്യമായി അപ്രത്യക്ഷമാവുകയും വേനൽക്കാലത്ത് രാത്രി ഞങ്ങൾ അത് കാണാതിരിക്കുകയും ചെയ്യുന്നു ആകാശം ഒരിക്കലും ഇരുണ്ടതായിരിക്കില്ല അതിനാൽ ഇത് വളരെ തീവ്രമായ താപനിലയാണ് 30 ഡിഗ്രി 20 ഡിഗ്രി 10 അല്ലെങ്കിൽ പരമാവധി 15 ഡിഗ്രി നോർവേയുടെയും സ്വീഡൻ ഫിൻലാൻഡിന്റെയും Norway and the Sweden the Finland അതിർത്തിയിലുള്ള ധ്രുവ വൃത്തത്തിന് ശേഷം ആർട്ടിക് സർക്കിളിൽ ഉള്ള സ്ഥലമാണിത് ഞാൻ കിരുണയെക്കുറിച്ച് സംസാരിക്കുന്ന സ്ഥലമാണിത് ഇതാണ് ആർട്ടിക് സർക്കിൾ അതുകൊണ്ട് ഫോട്ടോയിൽ നിങ്ങൾ ഇവിടെ കാണുന്നത് എന്റെ താമസ സ്ഥലമാണ് നിങ്ങൾക്ക് സ്വീഡൻ തുടങ്ങിയ രാജ്യങ്ങളിൽ ഖനന വിഭവങ്ങൾ ഉള്ളതായി അറിയുന്നു ഖനന നിക്ഷേപം മുഖാന്തരം സമ്പന്നമായി അറിയുന്നു നോർവേയിൽ എണ്ണ വിഭവങ്ങളാൽ സമ്പന്നമാണ് അതുപോലെ തന്നെ ഈ പ്രത്യേക ഖനനനഗരം വളരെ പഴയ ഒരു പട്ടണമായിരുന്നില്ല പക്ഷേ ഇത് 150 വർഷം പഴക്കമുള്ള പട്ടണമല്ല ഇത് നിങ്ങൾ കാണുന്ന ഇരുമ്പയിര് ഖനിയാണ് ഇതാണ് കിരുണ പട്ടണം ഇത്തരത്തിലുള്ള കഠിനമായ കാലാവസ്ഥയിൽ ഏതെങ്കിലും ഖനനനഗരം ഉണ്ടെന്ന് കരുതുക ഇരുമ്പ് അയിര് കാരണമാണ് ആണ് ആളുകളും ഈ സ്ഥലവും നിലനിൽക്കുന്നത് കാരണം അതിൽ ഒരു ബിസിനസ്സ് മേഖല ഉൾപ്പെട്ടിട്ടുണ്ട് അതിൽ ഒരു ഉപജീവന ഘടകമുണ്ട് ആളുകൾ 30 ഡിഗ്രി വരെ പോയി തൊഴിലവസരങ്ങൾ ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവിടെ താമസിക്കാൻ തുടങ്ങുന്നത് ഈ ഇരുമ്പയിര് 150 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചപ്പോൾ ആളുകൾ അവർക്ക് ഒരു ചെറിയ ആവാസവ്യവസ്ഥ വികസിപ്പിക്കാൻ തുടങ്ങി ഈ ഖനിയിലെ പ്രശ്നം ഞാൻ അർത്ഥമാക്കുന്നത് ഇത് ഏറ്റവും സമ്പന്നമായ അയിരിലൊന്നാണ് അവർ ഖനനം തുടങ്ങി ഞാൻ 2013 ൽ താമസിക്കുമ്പോൾ അവർ മണ്ണിനടിയിലേക്ക് പോകുന്നു അത് നഗര കേന്ദ്രത്തിനടുത്തുള്ള നഗര കേന്ദ്രത്തിലേക്ക് എത്തി ഖനനം പ്രവർത്തനങ്ങൾ നഗരജീവിതത്തെ തടസ്സപ്പെടുത്തിയേക്കാം എന്ന് ഇപ്പോഴാണ് അവർ മനസ്സിലാക്കിയത് അത് എപ്പോൾ വേണമെങ്കിലും ആ ആവാസവ്യവസ്ഥയെ നഗരജീവിതത്തെ മുഴുവൻ അപകടത്തിലാക്കാം എന്തുകൊണ്ടാണ് നഗരത്തെ മറ്റൊരു സ്ഥലത്തേക്ക് സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റാത്തതെന്ന് അവർ ചിന്തിച്ചു അവർ ജിയോ ടെക്നിക്കൽ വിശകലനം ചെയ്യാൻ തുടങ്ങി ഈ ഖനന പ്രവർത്തനം വിവിധ ഘട്ടങ്ങൾ ആയി തുടർന്നാൽ 2033 ഓടെ ഇത് മിക്കവാറും ഇവിടെയെത്തും അതിനാൽ ആ രീതിയിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ മുഴുവൻ നഗരങ്ങളിലും ഇരുമ്പയിര് ഉള്ളിടത്ത് താമസിക്കുന്നത് സുരക്ഷിതമല്ല അവിടെയാണ് എന്തുകൊണ്ടാണ് മെച്ചപ്പെട്ട സ്ഥലത്തേക്ക് സ്ഥാപിക്കപ്പെടാത്തത് എന്ന ചിന്താ പ്രക്രിയ ഒരു സുരക്ഷിതമായ സ്ഥലത്തേക്ക് കിരുണയുടെ സന്ദർഭം പരിശോധിച്ചാൽ ഒന്നാമതായി ഈ പ്രദേശത്ത് സമി ഗോത്രവർഗ്ഗക്കാരും താമസിക്കുന്നുണ്ട് റെയിൻഡിയർ കന്നുകാലികളെ വളർത്തുന്നതാണ് അവരുടെ പ്രധാന തൊഴിൽ അവർക്ക് ഈ നായ സ്ലെഡ്ജുകളുണ്ട് നിങ്ങൾ കാണുന്നത് പൂർണ്ണമായും മരവിച്ച നദിയാണ് അത് ഡോഗ് സ്ലെഡ്ജുകൾ ഒരു തരം വഴിയായി ഉപയോഗിക്കുന്നു അതിനാൽ ഇവിടെ ശൈത്യകാല കാലാവസ്ഥ തടസ്സം ഒരു പാതയായി മാറുന്നുവെന്നും നിങ്ങൾ കാണുന്ന മറ്റൊരു സീസണിൽ ഒരു പാത ഒരു തടസ്സമാകുമെന്നും മനസ്സിലാക്കണം ഇവിടെ ഒരു നദി പോലെ ഒരു തടസ്സം ഇപ്പോൾ വ്യത്യസ്ത ഇടങ്ങൾ പോലെ സാമി ഗോത്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു പാതയായി മാറിയിരിക്കുന്നു അവരുടെ പരമ്പരാഗത ജീവിതമാർഗം റെയിൻഡിയർ കന്നുകാലികളെ വളർത്തുന്നതാണ് അങ്ങനെ അവർ ടൂറിസം മെച്ചപ്പെടുത്തി ഐസ് ഹോട്ടൽ 'ice hotel' തുടങ്ങിയ സ്ഥലം ഒന്നാണ് കൂടാതെ ഫിൻലാൻഡിന് സമീപമുള്ള ലാപ്ലാന്റും സാന്താക്ലോസ് ഗ്രാമത്തിലെ ചില വിനോദസഞ്ചാര കേന്ദ്രങ്ങളും അവർക്ക് ഉണ്ട് അതിനെ റൊവാനീമി എന്ന് വിളിക്കുന്നു അതിനാൽ ഈ ശൈത്യകാല അനുഭവം മുഴുവനും ആധികാരികവുമാണ് മാത്രമല്ല ഈ പ്രത്യേക സ്ഥലത്തെത്തുന്ന സഞ്ചാരികൾക്ക് ഇത് അവിസ്മരണീയമായ അനുഭവമാണ് ഇപ്പോൾ അവർ നീങ്ങാൻ തീരുമാനിക്കുമ്പോൾ എവിടേക്കാണ് പോകേണ്ടത് അതിനാൽ ഒടുവിൽ അവർ എയും ബിയും മറ്റു സ്ഥലങ്ങൾ തിരിച്ചറിഞ്ഞു ഈ സ്ഥലം അടിസ്ഥാനപരമായി ലുസോവാര പർവതത്തിനടുത്താണ് മുമ്പ് ഒരു ഖനി അടച്ചിരുന്നു അവിടെ ഖനന പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല മാത്രമല്ല ഇത് കൂടുതൽ സുരക്ഷിതവുമാണ് വ്യക്തമായും ഇത് ഒരു സുരക്ഷിത പോയിന്റാണോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അതെ എന്ന് എപ്പോഴും ആഗ്രഹിക്കുന്നു കാരണം ബിയിലേക്ക് ഉള്ള പ്രശ്നം ഖനന പ്രവർത്തനങ്ങൾ ഈ ദിശയിലേക്കാണ് പോകുന്നത് കുറച്ച് സമയത്തിന് ശേഷം ഇത് ബിയിലേക്കും എത്തിച്ചേരാം അതിനാൽ നമുക്ക് മറ്റെവിടെയെങ്കിലും പോകേണ്ടിവരാം പക്ഷേ വാസ്തവത്തിൽ അധികാരികൾ ഇത് തിരഞ്ഞെടുത്തു അവർ എങ്ങനെ തിരഞ്ഞെടുത്തു കാരണം ഒരു നഗരം നീക്കുന്നതിന് ഭൂഗർഭ സേവന ഇൻഫ്രാസ്ട്രക്ചർ മുഴുവൻ നിങ്ങൾക്കറിയാവുന്ന സേവനങ്ങൾ നീക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട് കൂടാതെ 50 വർഷത്തിനുശേഷം ഈ ഖനിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ചില അനിശ്ചിതത്വമുണ്ട് അവർ ബിയിലേക്ക് പോകാൻ താൽപ്പര്യപ്പെടുന്നതിനാൽ അവരുടെ സേവനങ്ങൾ വിപുലീകരിക്കാൻ എളുപ്പമാണ് അതിനാൽ കിരുണ കൊമ്മുനും സർക്കാർ ഉടമസ്ഥതയിലുള്ള ഖനന കമ്പനിയായ എൽകെഎബിയും ചേർന്ന് അവർ ഒരു മത്സരം നടത്തി കിരുണയുടെ പുതിയ നഗര കേന്ദ്രത്തിനായി ഗില്ലരാഡി ഹെൽസ്റ്റൺ ആർക്കിടെക്ചർ സ്പേസ് സ്പേസ് എബിയും വെക്ചുറ കൺസൾട്ടിംഗും എവിഡൻസ് ബിഎൽഡബ്ല്യു എബി Ghillaradi Hellsten architecture Space Space AB and Vectura consulting and evidence BLW AB ഇവരിൽനിന്ന് വൈറ്റ് ആർക്കിടെക്ചർ 'white architecture' ആണ് കിരുണയെ സംബന്ധിച്ചിടത്തോളം വിജയിയായത് വൈറ്റ് ആർക്കിടെക്ചർ അദ്ദേഹത്തിന്റെ പങ്കാളികൾ അവർ വികസിപ്പിച്ചെടുത്ത ഈ കമ്പനി 100 വർഷത്തെ മാസ്റ്റർ പ്ലാൻ 2018 മുതൽ എങ്ങനെ ക്രമേണ മെച്ചപ്പെടുത്താം ഉദാഹരണത്തിന് ആദ്യം നിങ്ങൾ ഇത് നീക്കുക പിന്നീട് ഈ മുഴുവൻ കാര്യങ്ങളും നിർമ്മിക്കുന്നു ഈ നഗരം എങ്ങനെയാണ് പുരോഗമിക്കേണ്ടതെന്നും അവർ വികസിപ്പിച്ചെടുത്ത 100 വർഷത്തെ പരിവർത്തന പദ്ധതിയും ക്രമേണ നിങ്ങൾക്കു മനസ്സിലാകും ഇപ്പോൾ അവർ വികസിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾക്കറിയാം ഒരു പ്രധാന വശം അവർ ഈ ഹൈവേ ഇടനാഴികളെക്കുറിച്ചാണ് സംസാരിച്ചിട്ടുള്ളത് എപ്പോഴെങ്കിലും ഈ ഇടനാഴികളെ ഈ പാതയിലേക്ക് മാറ്റുകയാണെങ്കിൽ ഇത് എന്തുതരം ആഘാതം ചെലുത്തുന്നു സാമി ഗോത്രങ്ങൾ അവർ പറയുന്ന കാരണം മുഴുവൻ വികസനവും നിങ്ങൾക്കറിയാമെങ്കിൽ ഈ ഹൈവേകൾ നിർമ്മിക്കുന്ന നിമിഷം റെയിൻഡിയർ ഹെർഡിംഗ് റൂട്ടുകളും ഇല്ലാതാകും റെയിൻഡിയർ ഹെർഡിംഗ് റൂട്ടുകളാണിവയെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഈ മേച്ചിൽപ്രദേശങ്ങൾ ചെറുതായിത്തീരുന്നതായി നിങ്ങൾക്കറിയാം കാരണം നിങ്ങൾ നഗരം മുഴുവൻ ഇവിടെ നിന്നും അവിടെ ഇപ്പൊ മാറ്റുന്ന നിമിഷം ഈ പരിവർത്തനം മുഴുവനും ആവാസവ്യവസ്ഥയെ സ്വാധീനിക്കാൻ പോകുന്നു മാത്രമല്ല മൃഗങ്ങൾ മേച്ചിൽ സ്രോതസ്സുകൾ ഇല്ലാതാകുമ്പോൾ എവിടെയാണത് മേയുക അതാണ് സാമി ഗോത്രങ്ങൾ യഥാർത്ഥത്തിൽ മുഴുവൻ പ്രക്രിയയും മനസിലാക്കിയത് ഒടുവിൽ അവർ ഈ ഹൈവേ ഇടനാഴി മുഴുവൻ നീക്കാൻ തീരുമാനിച്ചു റെയിൽവേ സ്റ്റേഷനിലേക്കും പുതിയ സ്ഥലത്തേക്കും ബന്ധിപ്പിക്കുന്നതും ഹൈവേ ഇടനാഴി നിർമ്മിച്ചതും ഗോത്രവർഗക്കാരുടെയും അവരുടെ ഉപജീവന വിഭവങ്ങളുടെയും പ്രകൃതിവിഭവങ്ങൾ ഓടും ഉള്ള ആശങ്ക അവർ കാണിച്ചത് ഇങ്ങനെയാണ് ഇപ്പോൾ വരുന്ന പ്രശ്നം അതെ ഞങ്ങൾ ഒരു പുതിയ നഗരത്തിലേക്ക് മാറുകയാണ് ഒരുപക്ഷേ മുഴുവൻ ഭവനമേഖലയും പുനർനിർമിക്കാൻ കഴിഞ്ഞേക്കും ഒരുപക്ഷേ മുഴുവൻ വീടുകളും പൊളിച്ചുമാറ്റാം എന്നാൽ അവരുടെ സംസ്കാരത്തിന് എന്ത് സംഭവിക്കുന്നു കാരണം ഈ ആളുകൾ വളരെയധികം വികാരങ്ങൾ ഉൾക്കൊള്ളുന്നു ഒന്ന് കിരുണവാരെ ചർച്ചും ടൌൺഹാളും കൂടാതെ മറ്റു പല കെട്ടിടങ്ങളും 1984 ൽ ലിസ്റ്റുചെയ്ത കെട്ടിടങ്ങളാണ് ഈ പ്രത്യേക ചരിത്ര കെട്ടിടങ്ങൾക്ക് എന്ത് സംഭവിക്കും ലിസ്റ്റുചെയ്ത കെട്ടിടങ്ങൾ അവ വളരെയധികം വികാരങ്ങളും വഹിക്കുന്നവയാണ് സമൂഹവും ഈ വികാരങ്ങളിൽ പതിച്ചിട്ടുണ്ട് മാത്രമല്ല ഇത് സമൂഹത്തിൽ ഒരു പ്രതിച്ഛായ സൃഷ്ടിക്കുകയും ചെയ്തു വാസ്തവത്തിൽ ഈ പള്ളി യഥാർത്ഥത്തിൽ രൂപകൽപ്പന ചെയ്തത് ആർക്കിടെക്റ്റ് ഗുസ്താഫ് വിക്മാനും ആർതർ വോൺ രൂപകൽപ്പന ചെയ്ത ടൌൺഹാളും ആണ് വാസ്തവത്തിൽ ഇത് ഒരുതരം നാഗരിക കേന്ദ്രത്തിനുള്ള സ്ഥലമാണ് നാഗരിക ഇടപെടൽ കേന്ദ്രം എല്ലാം നിങ്ങൾക്കറിയാമല്ലോ കിരുണയുടെ ഒരു പ്രത്യേക സാംസ്കാരിക പ്രതിച്ഛായയാണ് ഇത് പതിനാലാം നൂറ്റാണ്ടിലോ പതിമൂന്നാം നൂറ്റാണ്ടിലോ പോലെ ഇത് വളരെ പഴയതല്ല 100 വർഷം പഴക്കമുള്ളവയാണെങ്കിലും അവ അവിടെ താമസിക്കുന്നവർക്ക് ധാരാളം അർത്ഥങ്ങൾ നൽകുന്നു അതിനാൽ ഈ പൈതൃക കെട്ടിടങ്ങൾ എങ്ങനെ നീക്കാമെന്നതാണ് പ്രശ്നം ഞങ്ങൾക്ക് കഴിയില്ല ഈ സുപ്രധാന കെട്ടിടങ്ങൾ പൊളിക്കുന്നത് എളുപ്പമല്ല തുടർന്ന് ഒരു പുതിയ ഇമേജ് നിർമ്മിക്കാൻ പോകുന്നു കാരണം ഇത് ജനങ്ങളുടെ വികാരങ്ങളുമായി കളിക്കുന്നതിനാലാണ് ജെന്നി സൊഹോം ചെയ്തതെന്താണ് ഈ പ്രത്യേക ഘട്ടത്തിൽ ഒരു വലിയ പദപ്രയോഗങ്ങൾ ആരാണ് എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാം റിപ്പോർട്ടുകളിലും റിപ്പോർട്ടുകളിലും ധാരാളം റിപ്പോർട്ടുകൾ വരുന്നു വാസ്തവത്തിൽ കിരുണ സ്വഭാവവും അതിലെ അവകാശവും മനസിലാക്കിയാൽ നിങ്ങൾക്ക് ഇത് LKAB കമ്പനിയുടെ സ്ഥലമാണെന്ന് കാണാൻ കഴിയും ഇതാണ് കിരുണ കൊമ്മുൻ ഇതാണ് സേവനവും വിതരണ നഗരവും റെയിൽവേ വഷം എവിടെയാണെങ്കിലും ഇത് റെയിൽവേ സ്ഥലമാണ് അതിനാൽ നിങ്ങൾക്ക് ഈ 3 പേരും കിരുണയുടെ പ്രധാന പങ്കാളികളാണ് ഒന്ന് റെയിൽവേയാണ് മറ്റൊന്ന് എൽകെഎബി സർക്കാർ ഉടമസ്ഥതയിലുള്ള ഖനന കമ്പനിയാണ് മറ്റൊന്ന് സേവനത്തിനായി കിരുണ കൊമ്മുൻ ആളുകൾ ധാരാളം രേഖകൾ ധാരാളം ഹെറിറ്റേജ് ബോർഡുകൾ കിരുണ കൌൺസിലുകളുടെ കൺട്രി അഡ്മിനിസ്ട്രേറ്റീവ് ബോർഡിൽ ധാരാളം രേഖകൾ ഉണ്ട് കൂടാതെ എൽകെഎബിയും ധാരാളം റിപ്പോർട്ടുകൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം കൺസൾട്ടൻസുകളും ഉണ്ട് പക്ഷേ ജെന്നി എന്താണ് ചെയ്തത് അവർ ഒന്നിച്ചുചേർക്കാൻ ശ്രമിച്ചു ഈ മുഴുവൻ പ്രമാണത്തിന്റെയും ഉദ്ദേശ്യമെന്താണെന്നും അവ ഈ പൈതൃക കെട്ടിടങ്ങളുടെ സംരക്ഷണവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും അവൾ വിശകലനം ചെയ്യാൻ ശ്രമിച്ചു എന്താണ് സംഭവിക്കുന്നതെന്നതിന്റെ വാചകം ലഭിക്കാൻ അവർ എന്താണ് സംസാരിക്കുന്നതെന്ന് അറിയാൻ ഞാൻ അവളുടെ ജോലിയുടെ ഒരു സംഗ്രഹം കാണിക്കുന്നു തുടർന്ന് 1984 ൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് എല്ലാ ചുവന്ന ഡോട്ടുകളും പോലെയാണ് യഥാർത്ഥത്തിൽ നിയുക്ത പ്രദേശങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് അവയെല്ലാം ചുറ്റുമുള്ള ലിസ്റ്റുചെയ്ത കെട്ടിടങ്ങളാണ് ഒപ്പം ഒരു സംരക്ഷണ പദ്ധതിയും ഉണ്ട് ഇത് 1984 ൽ അംഗീകരിച്ചു ഇവിടെ പൈതൃകവൽക്കരണം യഥാർത്ഥത്തിൽ വിവിധ വശങ്ങളെ പരാമർശിക്കുന്നു ഒന്ന് പുതിയ പൈതൃകത്തിന്റെ കൂട്ടിച്ചേർക്കലാണ് കാരണം കിരുണ കൂടുതൽ മുന്നോട്ട് പോകാൻ പോകുന്നുവെന്ന് അവർ അറിഞ്ഞപ്പോൾ ഈ പൈതൃക കെട്ടിടങ്ങൾക്കായി ഒരു സ്ഥലംമാറ്റം ആസൂത്രണം ചെയ്തിട്ടുണ്ട് കാരണം പുനർനിർമ്മാണ വശത്തിന് പുറമെ ഈ പൈതൃക കെട്ടിടങ്ങളുടെ പുനഃസ്ഥാപനത്തെക്കുറിച്ചും അവർ സംസാരിക്കുന്നു അതിനാൽ ആളുകൾ അവരുടെ ലിസ്റ്റുചെയ്ത പൈതൃക കെട്ടിടങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങി നിയുക്ത പ്രദേശങ്ങൾ അവിടെയാണ് അവർ ചില കെട്ടിടങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ഇതിനകം നിയുക്തമാക്കിയ പൈതൃകത്തിന്റെ പുനഃസ്ഥാപനം അതിനാൽ അവർ എങ്ങനെയാണ് ഒരു പ്രത്യേക പ്രാധാന്യമായി വീണ്ടും ഒരു സ്ഥിരീകരണം നൽകുന്നത് അതുവഴി നിങ്ങൾ മുന്നോട്ട് പോകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കെട്ടിടമാണിതെന്ന് അവർ ഊന്നിപ്പറയുന്നു ഇതിനകം നിയുക്തമാക്കിയ പൈതൃകത്തിന്റെ പുനർ വ്യാഖ്യാനവും മുമ്പ് നിയുക്തമാക്കിയ പൈതൃകത്തെ നിരസിക്കുന്നതും ഇവിടെയാണ് മുഴുവൻ പ്രക്രിയയും നടന്നത് അത് എങ്ങനെയാണ് പോയതെന്ന് നമുക്ക് നോക്കാം ഈ പ്രത്യേക സംസ്കാരം എങ്ങനെയാണ് നീക്കൽ പ്രക്രിയയിൽ കണക്കിലെടുക്കാൻ പോകുന്നത് എന്നതിന്റെ വിവാദപരമായ നിരവധി വശങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവിടെയാണ് ദേശീയ പൈതൃക ബോർഡിന്റെ ജനറൽ ഡയറക്ടറും ഒരു ചർച്ചയിൽ എഴുതിയത് ഭാവിയിൽ കിരുണയെക്കുറിച്ചും അതുവഴി ഇരുപതാം നൂറ്റാണ്ടിലെ ആധുനിക സ്വീഡനെക്കുറിച്ചും നമുക്ക് പറയാൻ കഴിയുന്ന ചരിത്രത്തെക്കുറിച്ചാണ് യുദ്ധമെന്ന് വിവിധ ഏജൻസികൾ എന്താണ് ചിന്തിക്കുന്നതെന്നതിന്റെ ഈ വ്യാഖ്യാനങ്ങളെല്ലാം കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ജെന്നീസ് വർക്ക് സംസാരിക്കുന്നത് ഇവിടെയാണ് വിവിധ ബോർഡുകൾ എന്താണ് ചിന്തിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് അതിനാൽ നിങ്ങൾക്കറിയാം നിങ്ങൾ ഈ നീക്കത്തിന്റെ അവസരം എടുക്കുമ്പോൾ എല്ലായ്പ്പോഴും ആളുകൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത് ഏത് തരത്തിലുള്ള ചരിത്രമാണ് നിങ്ങൾ ഇതിനെക്കുറിച്ച് പറയാൻ പോകുന്നതെന്ന് നിങ്ങൾക്കറിയാവുന്ന ആധുനിക ചിന്തയുമായി വിഭാവനം ചെയ്യാൻ കഴിയും ഞങ്ങൾ ഇപ്പോഴും ഈ പഴയ കാര്യങ്ങൾ തിരികെ കൊണ്ടുവരും അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ഒരു പുതിയ കാര്യവുമായി നിങ്ങൾ പൂർണ്ണമായും വരികയായിരുന്നു അതാണ് വ്യത്യസ്ത പങ്കാളികളുടെ ആശങ്കകൾ ഹെറിറ്റാഗൈസേഷൻ പ്രക്രിയയിലേക്ക് വരുന്ന 3 പ്രധാന കാര്യങ്ങൾ ഊന്നിപ്പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ഹെറിറ്റാഗൈസേഷൻ റീ ഹെറിറ്റാഗൈസേഷൻ ഡി ഹെറിറ്റാഗൈസേഷൻ heritagisation re heritagisation and de heritagisation എന്നിവയാണ് 1984 ൽ പട്ടികപ്പെടുത്തിയ മുഴുവൻ സംരക്ഷണ പദ്ധതിയും വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് വിശദീകരിച്ച ഹെറിറ്റാഗൈസേഷൻ പ്രക്രിയയാണ് അതിലൊന്ന് ഈ കെട്ടിടങ്ങൾ പുതിയ സ്ഥലത്തേക്ക് പോകുകയാണെന്നും അവ ആരംഭിച്ചത് അവിടെയാണെന്നും ആളുകൾ അറിയുമ്പോൾ കിരുണ നീങ്ങുമ്പോൾ ഈ പൈതൃക സ്വത്തുക്കളുടെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞുകൊണ്ട് പഴയ ഖനിത്തൊഴിലാളി പോലും ഇവിടെ താമസിച്ചു ആദ്യത്തെ ഖനിത്തൊഴിലാളി ഇവിടെ താമസിച്ചു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടിൽ അല്ലെങ്കിൽ ഒരു റെയിൽവേ ട്രാക്ക് റെയിൽവേ കോച്ച് നിങ്ങൾക്കറിയാം ചിത്രത്തിൽ വിവിധ വശങ്ങളുണ്ട് തുടർന്ന് അവർ വീണ്ടും ആരംഭിച്ചു ഹെറിറ്റാഗൈസേഷൻ അവിടെയാണ് ജെന്നി അതിനെ വീണ്ടും ഹെറിറ്റാഗൈസേഷൻ എന്ന് വിളിക്കുന്നത് ഒടുവിൽ ഈ മുഴുവൻ മാധ്യമ പദപ്രയോഗവും വളരെ വ്യത്യസ്തമാണ് ദിവസാവസാനത്തോടെ വ്യാഖ്യാനങ്ങൾ വളരെ വ്യത്യസ്തമാണ് തീരുമാനമെടുക്കുന്നവർ ബോർഡിലേക്ക് വരുന്നത് സാമ്പത്തിക ചെലവ് കണക്കിലെടുത്ത് ആ കിരുണ ചർച്ചോ ടൌൺഹാളോ നീക്കാൻ എത്രമാത്രം ചെലവാകുമെന്ന് ഉദാഹരണത്തിന് ഒരു കിരുണ ചർച്ച് മരംകൊണ്ടുള്ള ഷിംഗിളുകളുടെ നീളമേറിയതും വളരെ നീണ്ടതുമായ ഒരു വലിയ ഘടനയുള്ള പൈതൃക ഘടന അതിനാൽ അവർ ഓരോ ഷിംഗിളുകളു പുറത്തെടുത്ത് പരിപാലിക്കണം അത് ചുമന്ന് വയ്ക്കുക സ്ഥാപിക്കുക അതിനാൽ ഇത് നിങ്ങൾക്കറിയാവുന്ന ഏതാനും ദശലക്ഷം പ്രോജക്റ്റിന് ചിലവാകും അതിനാൽ അവർ അതിന്റെ ബജറ്റ് വിലയിരുത്താൻ ശ്രമിക്കുന്നു പ്രായോഗിക പരിഗണനകൾ എല്ലാം ശ്രദ്ധിച്ചതിനുശേഷം നിങ്ങൾക്കറിയാവുന്ന ഈ കെട്ടിടങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നതിന്റെ കൂടുതൽ പ്രായോഗികമായ രീതിയിലാണ് അവർ അവസാന ഘട്ടത്തിൽ നോക്കാൻ തുടങ്ങിയത് അതിനാൽ ഡി ഹെറിറ്റാഗൈസേഷൻ പ്രക്രിയ ആരംഭിച്ചു അവിടെയാണ് 12 ഓളം കറുത്ത കൊമ്പുള്ള കെട്ടിടങ്ങളുള്ളതും കൂടാതെ 17 വരെ ഘടനകളുമുണ്ട് 12 മുതൽ 17 വരെ ഘടനകൾ അവർ തിരിച്ചറിഞ്ഞു അതെ ഇവ നീക്കത്തിൽ ശ്രദ്ധിക്കും കൂടാതെ പ്രൊഫസർ ക്രിസ്റ്റീന നിൽസണുമായി ഞാൻ പ്രവർത്തിച്ചിരുന്ന സ്പേഷ്യൽ പ്ലാനിംഗ് പ്രാക്ടീസിലും സിദ്ധാന്തത്തിലും സങ്കീർണതകൾ ഉണ്ടായിട്ടുണ്ട് ക്രിസ്റ്റീനാസ് വർക്ക് ഒരു ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്റ്റ് എന്ന ആസൂത്രണ സങ്കീർണ്ണതയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അതിൽ ഏർപ്പെട്ടിരിക്കുന്നതും പ്രത്യേകിച്ച് നഗരം മാറ്റുന്നതിലും അവർ വിമർശനാത്മക റിയലിസ്റ്റ് സിദ്ധാന്തവും രീതികളും സ്വീകരിക്കുന്നു യഥാർത്ഥ വെല്ലുവിളികൾ എന്താണെന്ന് അവർ വ്യത്യസ്ത വശങ്ങൾ കൊണ്ടുവരുന്നു വാസ്തവത്തിൽ നിങ്ങൾ നോക്കിയാൽ ഒരു സർക്കാർ ഉടമസ്ഥതയിലുള്ള ഖനന കമ്പനിയായ ഒരു എൽകെഎബിയും മുനിസിപ്പൽ ബോർഡായ കിരുണ കൊമ്മുനും നഗരത്തെ യഥാർത്ഥത്തിൽ ആശ്രയിക്കുന്ന പ്രാദേശിക സമൂഹങ്ങൾ എവിടെയുമുണ്ട് അതിനാൽ ഈ 3 പങ്കാളികളുമായി എല്ലായ്പ്പോഴും ഒരു ത്രിപാർട്ടൈറ്റ് ബന്ധം ഉണ്ട് അതിലൊന്നാണ് എൽകെഎബി അതിനുള്ള സാമ്പത്തിക സഹായം ഭരണപരമായ പിന്തുണ കിരുണ രണ്ടിനെയും ആശ്രയിക്കുന്ന ആളുകൾ ഇപ്പോൾ ആരാണ് ഈ നീക്കം ഏറ്റെടുക്കാൻ പോകുന്നതെന്ന് ജനങ്ങൾക്ക് ആശയക്കുഴപ്പമുണ്ട് ഈ നീക്കത്തിന് ഉത്തരവാദിത്വം ആർക്കാണ് മുനിസിപ്പൽ ഭരണകൂടത്തിന്റേയോ കൊമ്മുൻ ഭരണകൂടത്തിന്റേയോ കടമയാണോ അതോ യഥാർത്ഥത്തിൽ മുഴുവൻ ആത്മാവും ആയ എൽകെഎബി അവരുടെ ഫണ്ടിംഗ് ഏജന്റിന്റെ കടമയാണോ ഇവിടെ തീരുമാനമെടുക്കുന്നതാരാണ് ആരെയാണ് ശരിയായി സമീപിക്കാൻ കഴിയുക ആരാണ് ഉയർന്ന ക്രമത്തിൽ ഉള്ളത് കിരുണ കൊമ്മുൻ ആണോ എൽകെഎബി ആണോ ഉയർന്ന ക്രമത്തിൽ ഉള്ളത് എന്നത് വളരെയധികം ആശയക്കുഴപ്പം സൃഷ്ടിച്ചു അനിശ്ചിതത്വങ്ങളും അടുത്ത 50 വർഷത്തേക്കാണ് ആസൂത്രണം ചെയ്യുന്നത് 50 വർഷത്തിനുശേഷം അടുത്ത സ്ഥലത്തേക്ക് പോകേണ്ടിവരാം പക്ഷേ 50 വർഷങ്ങൾക്ക് മുമ്പ് അവർ പ്രീഫാബ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പോലുള്ള നൂതന സാങ്കേതികവിദ്യകളിൽ എങ്ങനെ നിക്ഷേപം നടത്താമെന്നും അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന സ്ഥലങ്ങൾ എളുപ്പത്തിൽ നീക്കാമെന്നും അവർ ചിന്തിക്കുന്നു ഈ ചിന്താ പ്രക്രിയകളെല്ലാം മുന്നോട്ട് പോയി പക്ഷേ യഥാർത്ഥ പ്രശ്നം മറ്റൊരു 10 വർഷത്തിനുള്ളിൽ അവർ വിപുലമായ ഖനന ഉപകരണങ്ങളും സാങ്കേതികതകളും ഉപയോഗിച്ച് സ്ഥലംമാറ്റത്തിനായി ഒരു വലിയ തുക നിക്ഷേപിച്ച് അതിനുശേഷം മറ്റൊരു 10 വർഷത്തിനുള്ളിൽ ഖനി മുഴുവൻ അടഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ ഖനന മേഖല മറ്റൊരു സാമ്പത്തിക പ്രതിസന്ധിയിലാണെങ്കിൽ എന്തുസംഭവിക്കും ഇത്തരത്തിലുള്ള നിക്ഷേപത്തിന് എന്ത് സംഭവിക്കും അതിനാൽ ഈ നിശ്ചയദാർഢ്യങ്ങളും അനിശ്ചിതത്വങ്ങളും ചോദ്യം ചെയ്യപ്പെടുന്നു കാരണം അവിടെയാണ് അവർ ഒരുതരം ബദൽ ഉപജീവന സംവിധാനങ്ങളും ഈ പരസ്പര ബന്ധവും രേഖീയമല്ലാത്തതും പരസ്പരാശ്രിതത്വവും സൃഷ്ടിച്ച കുഴപ്പങ്ങൾ അന്വേഷിക്കേണ്ടത് കാരണം ഈ ആളുകൾ ഇതിനെ ആശ്രയിച്ചിരിക്കുന്നു അവരുടെ കൊമ്മുൻ നിലനിർത്താൻ ഈ ആളുകൾ സാമ്പത്തിക വശത്തെ ആശ്രയിച്ചിരിക്കുന്നു ഈ മുഴുവൻ ബന്ധവും പരസ്പരം ആശ്രയിച്ചിരിക്കുന്നു ആക്ടർ നെറ്റ്വർക്ക് വീക്ഷണം ആരുടെ പങ്കാണ് ആരാണ് തീരുമാനമെടുക്കുകയെന്നതും കൊമ്മുന് എന്ത് പങ്കാണ് വഹിക്കേണ്ടതെന്ന് എൽകെഎബിക്ക് എന്ത് പങ്കാണ് വഹിക്കേണ്ടതെന്ന് അറിയാം ഈ വെല്ലുവിളികളെല്ലാം ഒരു വലിയ കടമയാണ് നിങ്ങൾക്കറിയാവുന്ന സെൻസ് ഓർഗനൈസേഷൻ ഓരോ സ്ഥാപനവും എങ്ങനെ സ്വയം ഓർഗനൈസു ചെയ്യുന്നുവെന്നത് നിങ്ങൾക്കറിയാം രണ്ടാമത്തെ കാര്യം സമയ വേരിയബിളുകളെക്കുറിച്ചാണ് വ്യത്യസ്ത സമയത്തെക്കുറിച്ച് പറയുമ്പോൾ ഏതുതരം തരത്തിലുള്ളതാണെന്ന് അറിയാം കാരണം കഠിനമായ കാലാവസ്ഥയിലാണ് പ്രവർത്തിക്കുന്നത് ഈ പ്രോജക്റ്റ് എങ്ങനെ നീക്കാൻ പോകുന്നു ഏകദേശം 5 വർഷം എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ 10 വർഷം 2022 അല്ലെങ്കിൽ ഇനിയും നീണ്ടു പോകും എങ്കിൽ ഏതെല്ലാം വിഭാഗങ്ങളിൽ ഉള്ള ആളുകളെ ശ്രദ്ധിക്കണം എന്നിട്ട് അവരെ എങ്ങനെ ജോലിസ്ഥലങ്ങളിലേക്ക് തിരികെ ബന്ധിപ്പിക്കാം അതിനാൽ ധാരാളം പ്രോജക്റ്റ് മാനേജുമെൻറ് പ്രശ്നങ്ങളും ഉണ്ട് അതിനാൽ ഞാൻ നിങ്ങളെക്കുറിച്ച് സംക്ഷിപ്തമായി പറയാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ് വെല്ലുവിളികൾ ഉൾപ്പെട്ടതെന്നും ഈ പ്രക്രിയയിൽ ഞാൻ ശരിക്കും അഭിനന്ദിക്കുന്നത് സ്വീഡനെയാണ് തെക്കേ അമേരിക്കയിലെ പല രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഖനന പ്രശ്നങ്ങൾ കാരണം ചില പട്ടണങ്ങൾ അല്ലെങ്കിൽ ചില ഹാംലെറ്റുകൾ അവർ നീക്കിയപ്പോൾ തെക്കേ അമേരിക്കയിൽ അവർ ചെയ്തത് ചൈനീസ് കമ്പനികളെ ഏൽപിക്കുകയാണ് ചെയ്തത് അവർ ജനങ്ങൾക്ക് പണം മാത്രമാണ് നൽകിയത് അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോകാം എന്നും ആ സ്ഥലം ഒഴിയാനും ആണ് അവർ ആവശ്യപ്പെട്ടത് എന്നാൽ ഇവിടെ അവർ കുറഞ്ഞത് മൃഗങ്ങൾ മേച്ചിൽസ്ഥലങ്ങൾ ആവാസവ്യവസ്ഥ എന്നിവപോലും പരിഗണിക്കുന്നുണ്ട് ഭാവിയിൽ എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ച് അവർ ആലോചിക്കുന്നു നമ്മൾ ഇതുപോലെ പോയാൽ ഇത് നിക്ഷേപിക്കുകയാണെങ്കിൽ ഇത് ശരിക്കും മൂല്യവത്തായിരുന്നു തീർച്ചയായും ഇത് വളരെ സമഗ്രമായ ഒരു ചിന്താ പ്രക്രിയയാണ് വളരെ ജനസംഖ്യയുള്ള നഗരപ്രദേശങ്ങളിൽ പോലും നിരവധി വെല്ലുവിളികൾ ഉണ്ട് സ്ഥലംമാറ്റ സന്ദർഭങ്ങളിലെ വെല്ലുവിളികൾ മനസിലാക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വളരെ നന്ദി